മൂന്നാം ആഴ്ചയിലെ മൂന്നാം മൊഡ്യൂളിലേക്ക് പ്രിയ പങ്കാളികൾക്ക് സ്വാഗതം കൈകളുടെയും വിരലുകളുടെയും ചലനവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ ആണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൈകളുടെ ചലനത്തിന്റെ അർത്ഥങ്ങളെയും വ്യാഖ്യാനങ്ങളെയും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മുടെ വിരലുകൾ പ്രവർത്തിക്കുന്ന രീതിയെയും കുറിച്ച് നമുക്കെല്ലാവർക്കും വിശാലമായ ധാരണയുണ്ട് നമ്മുടെ കൈയുടെ ചലനത്തിലൂടെ നമ്മൾ ആശയവിനിമയം നടത്തുന്ന വിഷയത്തിന്റെ അർത്ഥത്തെ ശക്തിപ്പെടുത്താനോ ചില സാഹചര്യങ്ങളിൽ നിരാകരിക്കാനോ കഴിയും ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിക്കാതെ ആശയവിനിമയം നടത്താൻ കൈ ആംഗ്യങ്ങൾ ഉപയോഗിക്കാം എന്നാൽ വാക്കുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവ വാക്കുകളുടെ അർത്ഥത്തിൽ മാറ്റം വരുത്താം അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ സർവ്വവ്യാപിയായ സവിശേഷതയാണ് ശരീരഭാഷയുടെ ബാക്കി ഭാഗങ്ങൾ പോലെ തന്നേ കൈ ചലനങ്ങൾ സ്വമേധയാ ഉള്ളതല്ലെന്ന് നമ്മൾ മിക്കപ്പോഴും കണ്ടെത്തുന്നു എന്നാൽ അതേ സമയം ചില സ്വമേധയാ ഉള്ള ആംഗ്യങ്ങൾ ഉണ്ട് അത് ഒരു പ്രത്യേക വികാരത്തെ ആശയവിനിമയം നടത്താൻ മനപൂർവ്വം ഉപയോഗിക്കുന്നു ഏറ്റവും സാധാരണയായി കൈ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തിയെ വരാൻ സൂചിപ്പിക്കുമ്പോഴോ ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെയെങ്കിലും കാത്തിരിക്കാൻ ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും പോകാൻ ആവശ്യപ്പെടുമ്പോഴോ ആണ് ഈ കൈ ചലനങ്ങളും സമാനമായ മറ്റ് ചലനങ്ങളും ഒരു സാമൂഹിക പ്രവർത്തനം നടത്തുന്നു അതേ സമയം തന്നെ നാം ഇതിനകം ചർച്ച ചെയ്ത നമ്മുടെ ശരീരഭാഷയുടെ മറ്റ് വശങ്ങൾ പോലെ ഉദാഹരണത്തിന് കണ്ണുകളിലൂടെയും വായിലൂടെയും പ്രകടിപ്പിക്കുന്ന നമ്മുടെ മുഖഭാവം പോലെ നമ്മുടെ കൈകളും വൈകാരികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു അതേസമയം ഇതിൻറെ വ്യാഖ്യാനത്തിൽ സാംസ്കാരിക വ്യതിയാനങ്ങളും സാധാരണ കൈയുടെ ചലനങ്ങളിലും അനുബന്ധ ഉപയോഗങ്ങളിലും സാമ്യതകൾ ഉണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം കൈകളുടെ ചലനത്തിന് താരതമ്യേന കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചില രാജ്യങ്ങളും ചില സംസ്കാരങ്ങളും ഉണ്ട് ഒരു വിധത്തിൽ നമുക്ക് പറയാൻ കഴിയും കൈ ചലനങ്ങൾ ഭാഷയിലെ ചിഹ്നന സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് ചില സാഹചര്യങ്ങളിൽ അവ സംഭാഷണത്തിലെ ടേൺ ടേക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ രീതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറയപ്പെടുന്നു കാരണം ഈ സംസ്കാരങ്ങളിൽ സാധാരണഗതിയിൽ ആളുകൾ കൂടുതൽ ആംഗ്യങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്നത് കാണാം കൈകൊണ്ടുള്ള ആംഗ്യങ്ങളും സംഭാഷണത്തിനിടയിൽ കൈകളുടെയും വിരലുകളുടെയും ചലനം ഇംഗ്ലണ്ടിനെപ്പോലുള്ള ഒരു രാജ്യത്ത് താരതമ്യേന കുറവാണ് സംഭാഷണത്തിനിടയിൽ കൈകൾ അമിതമായി ഉപയോഗിക്കുന്നത് അനുചിതവും പരുഷവുമാണെന്ന് ഇവിടെ ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു ഇറ്റലി പോലുള്ള രാജ്യത്തും മറ്റ് ചില രാജ്യങ്ങളിലും ഒരാൾ കൈ ഉയർത്തിയാൽ ആ വ്യക്തിക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നത് പതിവാണ് അതേസമയം മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും ശ്രോതാക്കൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ കൈകൾ അരികിൽ വയ്ക്കുകയോ കൈകൾ മര്യാദയോടെ മടക്കിവയ്ക്കുകയോ ചെയ്യുന്നു അതിനാൽ നമ്മുടെ കൈ ഉയർത്തുന്നത് അനുമതി തേടുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് സംസാരിക്കാനുള്ള അവസരം ചോദിക്കുന്നതോ ആണ് സാധാരണയായി എല്ലാ പ്രൊഫഷണൽ സാഹചര്യങ്ങളിലും ഉയർത്തിയ കൈ പലപ്പോഴും നമ്മുടെ പ്രസംഗം ആരംഭിക്കുന്നതിനായി ഉള്ള ആഗ്രഹമായി അല്ലെങ്കിൽ പങ്കാളിത്തം പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള ആഗ്രഹമായി കണക്കാക്കപ്പെടുന്നു സ്വമേധയാ അല്ലാത്തതും എന്നാൽ സ്വമേധയാ ചെയ്യാവുന്നതുമായ മറ്റൊരു സാധാരണ ആംഗ്യം നമ്മുടെ കൈപ്പത്തിയിൽ തടവുക എന്നതാണ് സാധാരണഗതിയിൽ നമുക്ക് ഇത് ഒരു പോസിറ്റീവ് എറിയുന്നയാളുടെ ആംഗ്യങ്ങളിൽ ഈ ആംഗ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉത്ഭവം നമുക്ക് കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് ഒരു വിജയകരമായ സ്ട്രൈക്ക് ലഭിക്കുന്നതിനായി പ്രതീക്ഷയോടെ തന്റെ കൈകൾക്കിടയിൽ പകിട തിരിക്കുന്ന ഒരു ഡൈസ് എറിയുന്നയാൾ കാലക്രമേണ ഒരു വ്യക്തി തൻറെ കൈപ്പത്തിയിൽ തടവുന്ന വേഗത അനുസരിച്ച് വ്യക്തി ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റിവിറ്റി ആണോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ ആണോ എന്ന് സൂചിപ്പിക്കുന്നു നമ്മുടെ കൈപ്പത്തിയിൽ സാവധാനം തടവുന്നത് വഞ്ചനാപരമായതോ വക്രതയുള്ളതോ ആയി കാണപ്പെടുന്നു ഇത് തന്ത്രപരമായ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറുവശത്ത് നമ്മുടെ കൈപ്പത്തി ദ്രുതഗതിയിൽ തടവുന്നത് സാധാരണയായി ഒരു ഉത്സാഹം സന്തോഷം സന്തോഷകരമായ ടിൽറ്റിംഗ് കാണാൻ കഴിയും തുറന്ന കൈപ്പത്തികൾ പരമ്പരാഗതമായി വിശ്വാസ്യതയുടെ ആംഗ്യമാണ് വ്യത്യസ്ത സംസ്കാരങ്ങളിലെ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ തുറന്ന കൈപ്പത്തികൾ ഒരു വ്യക്തിയുടെ കൈയ്യിൽ ആയുധങ്ങളുടെ അഭാവമായി കണക്കാക്കപ്പെടുന്നു ഈ സാംസ്കാരിക വശം തുറന്ന കൈപ്പത്തികളും സത്യസന്ധതയെയുംക്കുറിച്ചുള്ള തുറന്ന ധാരണകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തി തുറന്ന കൈപ്പത്തി ഉപയോഗിച്ച് ഒരു സംഭാഷണം ആരംഭിക്കുകയോ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ ഇടയ്ക്കിടെ തുറന്ന കൈപ്പത്തി ആംഗ്യം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ശ്രോതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവനോ അവൾക്കോ കഴിയുന്നു ഈ അർത്ഥത്തിൽ തുറന്ന കൈപ്പത്തി ആംഗ്യം ബോധപൂർവം അല്ല എന്നിരുന്നാലും ഈ തുറന്ന കൈപ്പത്തി ആംഗ്യങ്ങളുടെ ഉപയോഗം സ്വയം പരിശീലനത്തിലൂടെ ആർജ്ജിക്കുന്ന ആളുകളെയും നമുക്കു കാണാൻ കഴിയും സംഭാഷണത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു കൈപ്പത്തി തുറന്നതായി അല്ലെങ്കിൽ രണ്ട് കൈപ്പത്തികൾ തുറന്നതായി കാണാനും മുകളിലേക്ക് തിരിക്കുന്നതായി കാണാൻ കഴിയുന്നുവെങ്കിൽ ഇത് സാധാരണയായി സത്യസന്ധതയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് പൊതുവായ ധാരണ മറുവശത്ത് ഈ ആംഗ്യം പരിശീലിക്കുന്നതും ബോധപൂർവ്വം അത് ഉപയോഗിക്കാനും കഴിയുന്ന ആളുകൾ പലപ്പോഴും മറ്റുള്ളവരെ സ്വീകരിക്കാൻ ഈ ആംഗ്യം ഉപയോഗിക്കുന്നു അങ്ങനെ അവർക്ക് തുറന്ന കൈപ്പത്തി ആംഗ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു നുണ കൈമാറാൻ കഴിയും മാത്രമല്ല ഈ നുണ മിക്കവരും വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ പാം ഡൌൺ ആംഗ്യം ഒരു ആത്മവിശ്വാസം നിർദ്ദേശിക്കുന്നു അതേ സമയം ഈ രീതിയിൽ ചെറുതായി കൈപ്പത്തി ചരിഞ്ഞാൽ അത് ഒരേസമയം കാഠിന്യവും നിർദ്ദേശിക്കുന്നു താഴേയ്ക്കുള്ള ഒരു കൈപ്പത്തി എന്നാൽ നേരെയാക്കിയ വിരലുകളാൽ അധികാരബോധത്തെ ഒരു ആധിപത്യത്തെയും ധിക്കാരത്തെയും സൂചിപ്പിക്കുന്നു തുല്യനിലയിലുള്ള ഇടപെടലുകളിൽ പോലും ഈ രീതി ആംഗ്യം സൂചിപ്പിക്കുന്നത് വ്യക്തി സമ്മതിക്കാൻ തയ്യാറല്ലെന്നും ഇതിനകം അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു ഈ പാം ഡൌൺ ചലനങ്ങൾ മറ്റ് ചില പോസിറ്റീവ് ആംഗ്യങ്ങൾക്കൊപ്പം ഉപയോഗിക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും ആക്രമണാത്മകമാണെന്ന് മനസ്സിലാക്കാം ചില സെലിബ്രിറ്റികളുടെ കൈപ്പത്തിയുടെയും കൈയുടെയും ചലനങ്ങളെക്കുറിച്ച് രസകരമായ ഒരു വിശകലനം ഇവിടെയുണ്ട് ഇത് നമ്മളെ ഈ വിശകലനം കൂടുതൽ മനസിലാക്കാൻ സഹായിക്കും ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ് ഇവാൻസ് തന്റെ കൈപ്പത്തികൾ എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്നത് ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറിയോ നിങ്ങൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തതായി എനിക്കറിയാം വളർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ധാരാളം സമയം ചെലവഴിച്ചരുന്നു അതിനാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അയാളുടെ കൈപ്പത്തി തുറന്നതും പ്രേക്ഷകർക്ക് കാണാനായി ലഭ്യവുമാണ് കുറച്ച് സൂക്ഷ്മത ഇവിടെ ചേർക്കുന്നു ഇത് ഒരു നിയമമല്ല പക്ഷേ നിങ്ങൾ കൈപ്പത്തി പുറത്തേക്കും താഴേക്കും സ്ഥാപിക്കുകയാണെങ്കിൽകൂടുതൽ സ്വേച്ഛാധിപത്യത്തിന്റെ സൂചനയായി ആളുകൾ ഇത് മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു കമാൻഡ് നൽകുന്നതുപോലെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കൈപ്പത്തി നീട്ടി മുകളിലേയ്ക്ക് പോയാൽ ഇതിനെ നിങ്ങൾ ആളുകളെ കാര്യങ്ങൾ ചെയ്യാൻ ക്ഷണിക്കുന്നതുപോലുള്ള ഒരു അഭ്യർത്ഥനയായി കാണുന്നു രണ്ട് സാഹചര്യങ്ങളിലും ഒരു പരിണാമ കാഴ്ചപ്പാടിൽ നിന്ന് അല്ലാതെ നിങ്ങളുടെ കൈപ്പത്തികൾ വെളിപ്പെടുത്തുന്നതാണ് നല്ലത് ഇത് ആളുകളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒളിക്കാൻ ഒന്നുമില്ലെന്നും നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ആണ് ഇത് പല സംസ്കാരങ്ങളിലും സത്യവും സമാനവുമാണ് ജെഫ് മടിയിൽ കൈകൾ മടക്കി വെച്ചിരിക്കുന്നു അതിനാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഉപയോഗമില്ലാതെ ലഭ്യമായ കൈപ്പത്തികളുടെ ആംഗ്യങ്ങളിൽ ഒരാൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല രണ്ടാമത്തേത് ദുർബലമായ വിരലുകൾക്കും കൈത്തണ്ടകൾക്കും തുടർന്ന് മൂന്നാമത്തെ ടിപ്പ് ടിക്കുകൾ ഒഴിവാക്കുക നിങ്ങൾ യോനയെ കാണാൻ പോകുന്നു ഒരു ടിക്ക് ഉണ്ട് അവിടെ അവൻ നിരന്തരം ടൈയിൽ സ്പർശിക്കുന്നു അവൻ നീങ്ങുന്നു അതെ അവൻ നീങ്ങുന്നു അതിനാൽ യോനാ ഒരു നല്ല കഥ പറയുകയോ ആളുകളെ ചിരിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നല്ല ഇതിനർത്ഥം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൈകൊണ്ടുള്ള ആംഗ്യങ്ങളെക്കുറിച്ചാണ് അതിനാൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പക്ഷേ അദ്ദേഹം ഇതുവരെ തന്റെ കൈപ്പത്തികൾ വെളിപ്പെടുത്തിയിട്ടില്ല അത് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ചെയ്യൂ അതിനാൽ ഈ വൈരുദ്ധ്യത്തിൽ ശ്രദ്ധ ചെലുത്തുക ക്രിസ് ഇവാൻസ് തുറന്ന കൈപ്പത്തികളും ശക്തമായ വിരലുകളും ഉപയോഗിക്കുന്നു യോനായുടെ കൈത്തണ്ടയിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാം അത് ദുർബലമാണ് അവിടെ കൈകൾ ഷേക്ക് ചെയ്യുന്നു എന്നാൽ ആദ്യത്തേതിന് ഞങ്ങൾ ആദ്യം കടലാസിൽ എഴുതിയത് പോലീസുകാരനായ ഒരാൾ പോലീസ് ക്യാപ്റ്റനായി കളിക്കണമെന്നാണ് അദ്ദേഹം അതെ എന്ന് പറയുമ്പോൾ അവന്റെ വിരലുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾ വിരലുകളാൽ ഈ വിചിത്രമായ ആകൃതി ഉണ്ടാക്കുന്നു കാരണം അവന്റെ വിരലിൽ ശരിക്കും പേശി പിരിമുറുക്കം ഇല്ല അതെ എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്റെ ബാല്യം അവന്റെ കൈത്തണ്ട ഇവിടെ പിന്നിലേക്ക് ഇരിക്കുന്നു പക്ഷേ നിങ്ങളുടെ കൈത്തണ്ട പിന്നിലേക്ക് ഇരുന്നാൽ നിങ്ങൾ കൂടുതൽ ദുർബലമായി കാണപ്പെടും ഇത് അങ്ങനെയായിരുന്നു എല്ലാ എൻ ഡബ്ലിയൂ എ ഐസ് ക്യൂബിലും ത്രീ കിംഗ്സ് ഫ്രൈഡേയിലും ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചു ഇവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മികച്ചരീതിയിൽ പ്രവർത്തിക്കുന്നു അയാളുടെ കൈത്തണ്ടയിൽ കുറച്ച് പിരിമുറുക്കം നടക്കുന്നു മിക്കപ്പോഴും ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക ആംഗ്യം നാം കാണുന്നു അവർ ഇരിക്കുമ്പോഴോ ചിലപ്പോൾ നിൽക്കുമ്പോഴോ അവരുടെ കൈകൾ വ്യത്യസ്ത രീതികളിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഒന്നുകിൽ അവർക്ക് കൈ പിടിച്ച് കൈപ്പത്തിയെ മേശയ്ക്കുമുന്നിൽ പിടിക്കാം അല്ലെങ്കിൽ താടിയെ പിന്തുണയ്ക്കാൻ കൈകൾ ഉപയോഗിക്കാം ചിലപ്പോൾ ഇത് ആത്മവിശ്വാസത്തിന്റെ സൂചനയായി കണക്കാക്കാം കാരണം മിക്കപ്പോഴും ആളുകൾ അവരുടെ പുഞ്ചിരിയോടൊപ്പമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ഇത് ഒരു നിയന്ത്രണ മനോഭാവം കാണിക്കുന്നു വളരെ തുറന്നത് അല്ലാത്ത ഒരു മനോഭാവം അതേ സമയം അതിന് ചില ഉത്കണ്ഠകളും ഉണ്ടാകാം അല്ലെങ്കിൽ ഇത് ചില നിഷേധാത്മകതയെയും സൂചിപ്പിക്കാം രാജകീയ സന്ദർശനങ്ങളിലും പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോഴും എലിസബത്ത് രാജ്ഞിയുടെ പ്രിയപ്പെട്ട ആംഗ്യമാണിത് സാധാരണയായി അവരുടെ കൈകൾ അവരുടെ മടിയിൽ വച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ചർച്ചയുടെ സമയത്ത് ഉപയോഗിക്കുമ്പോൾ നിരാശാജനകമായ ഒരു ആംഗ്യമാണിതെന്ന് നീരൻബെർഗ് തുടങ്ങിയ നെഗോഷ്യേഷൻ വിദഗ്ധരുടെ ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നെഗറ്റീവ് വിവരങ്ങൾ തടഞ്ഞുവയ്ക്കുകയാണെന്നും അല്ലെങ്കിൽ ഉത്കണ്ഠയുള്ള മനോഭാവം ഉണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു മുറുകെപ്പിടിച്ച കൈകൾക്ക് മൂന്ന് വ്യത്യസ്ത തരങ്ങൾ ആണുള്ളത് ഈ മൂന്ന് സ്ഥാനങ്ങളും അലൻ പീസ് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവ മുഖത്തിന് മുന്നിൽ കൈകൾ മുറുകെപ്പിടിക്കുന്നത് കൈകൾ മേശപ്പുറത്തോ മടിയിലോ വിശ്രമിക്കുന്നത് മൂന്നാമത്തേത് നിൽക്കുമ്പോൾ കൈകൾ ശരീരത്തിന് മുന്നിൽ പിടിച്ചിരിക്കുന്നത് കൈ മുറുകെപ്പിടിച്ച ഈ ചലനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കൈകൾ ചേർത്തുപിടിക്കുന്ന ഉയരം കൈ ഉയർന്ന സ്ഥാനത്ത് മുറുകെപ്പിടിച്ചൽ അത് നിഷേധാത്മകതയുടെ സൂചനയാണ് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വശം നമ്മുടെ വിരലുകളിലെ പിടിയിലൂടെ പ്രതിഫലിക്കുന്ന പിരിമുറുക്കമാണ് വിരലുകൾ വളരെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുതരം നെഗറ്റീവിറ്റിയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റേയാൾ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അടിച്ചമർത്തപ്പെട്ട കോപമോ ഉത്കണ്ഠയോ സൂചിപ്പിക്കുന്നു മറുവശത്ത് കൈകൾ അയഞ്ഞ രീതിയിലാണ് ചേർത്തു പിടിക്കുന്നത് എങ്കിൽ വിരലുകൾ അനാവശ്യമായ സമ്മർദ്ദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇത് മറ്റൊരാളെ ഒരു നിശ്ചിത അകലത്തിൽ നിർത്തുന്നതിനുള്ള ഒരു നിയന്ത്രണമോ പൊതുവായ മര്യാദയോ ആണെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും ഈ രണ്ട് പൊതു വ്യക്തികളെ ഉപയോഗിച്ച് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിന്റെയും ഫോട്ടോ ഉപയോഗിച്ച് എനിക്ക് ഈ വശം ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരൊറ്റ ഫോട്ടോഗ്രാഫിൽ മെഡ്വെദേവ് ശരീരഭാഷയുടെ മൂന്ന് നെഗറ്റീവ് വശങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ശരീരഭാഷയുടെ ഈ വശങ്ങളെല്ലാം നമ്മുടെ ഔപചാരിക സാഹചര്യങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ് ഒരാൾ ഉയർന്ന സ്ഥാനത്ത് കൈകൾ ചേർത്തുപിടിക്കുമ്പോൾ അയാൾക്ക് ഒളിക്കാൻ കഴിയാത്ത നിരാശയുടെ ഒരു തലത്തെ ആണ് നിർദ്ദേശിക്കുന്നത് അവന്റെ കൈയും താഴേക്ക് ചരിഞ്ഞിരിക്കുന്നു അവന്റെ കണ്ണുകളും താഴേക്കാണ് നോക്കുന്നത് ഈ വ്യാഖ്യാനം കൈകളുടെ ചലനത്തിൻറെ അടിസ്ഥാനത്തിൽ നിരാശയുടെ വ്യാഖ്യാനവുമായി പൊരുത്തപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വശം അവന്റെ വായ തുറക്കുന്നില്ല ഇത് വഞ്ചനയുടെ സൂചനയാണ് താനും മറ്റൊരാളും തമ്മിൽ ഒരു പ്രത്യേക തടസ്സം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ആണ് സൂചിപ്പിക്കുന്നത് ഈ പ്രത്യേക ഫോട്ടോ നോക്കുന്ന ആളുകൾക്ക് മെഡ്വദേവിൻറെ ശരീരഭാഷയെക്കുറിച്ച് വളരെ നല്ല വ്യാഖ്യാനം നൽകാൻ കഴിയില്ല വിൻസ്റ്റൺ ചർച്ചിലിന്റെ ശരീരഭാഷയുമായി ഇതിനെ വ്യത്യസ്തമാക്കാം വിൻസ്റ്റൺ ചർച്ചിൽ തുറന്ന കൈകളോടും തുറന്ന കൈപ്പത്തികളോടും കൂടിയാണ് സംസാരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും കഴിവിനെയും മറ്റ് ആളുകളുമായി ആശയവിനിമയവും സംഭാഷണവും സ്ഥാപിക്കാനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു പൊതു വ്യക്തിത്വങ്ങൾക്ക് ശരീരഭാഷയുടെ പങ്ക് വളരെ പ്രധാനമാണ് സാധാരണ പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖ മീറ്റിംഗ് വേളയിൽ മറ്റ് മീറ്റിംഗ് വേളയിൽ ഗ്രൂപ്പ് ചർച്ചകളിലെ വിദ്യാർത്ഥികൾക്ക് അവതരണങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിന് ശരീരഭാഷയുടെ പങ്ക് പ്രധാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ മധ്യഭാഗത്ത് കൈകൾ മുറുകെപ്പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തി മറ്റൊരാളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ പ്രതികരണം എന്തായിരിക്കുമോ എന്നതിനെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠാകുലനായോആണ് ഇത് ചെയ്യുന്നത് മുൻ അർജന്റീനിയൻ പ്രസിഡന്റ് ക്രിസ്റ്റീന കിർച്നറുടെ ഈ ഫോട്ടോയിൽ കൈകളുടെ സ്ഥാനം മധ്യഭാഗത്തേക്ക് ആണ് ഒരു പ്രത്യേക കാര്യത്തിനായി നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ കൈകളുടെ സ്ഥാനം പൂർവ്വാവസ്ഥയിലാണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ചില തന്ത്രങ്ങൾ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് കൈകൾ അയവുള്ളതാണെങ്കിൽ മാത്രമേ ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ ലഘൂകരിക്കാനാകൂ അതുപോലെ തന്നെ സംഭാഷണത്തിന്റെ ക്രിയാത്മകമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയൂ ഒരു ചായ ഇടവേള എടുക്കാം ചില പേപ്പറുകൾ കൈമാറാം ചില വിഷ്വലുകൾ കൈമാറാം ഇതിലൂടെ ഒരു വ്യക്തിക്ക് തുറന്ന കൈ ചലനങ്ങൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിതനാകുകയും അങ്ങനെ കൈ ചലനങ്ങൾ സ്വതന്ത്രമാവുകയും ചെയ്യുന്നു വിൻസ്റ്റൺ ചർച്ചിലിന്റെ മറ്റൊരു മറ്റ് ഫോട്ടോ മുമ്പത്തെ സ്ലൈഡിൽ പ്രദർശിപ്പിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു അദ്ദേഹം കൈകൾ പോക്കറ്റിലേക്ക് ഇടുന്നതായും മൈക്രോഫോണിൽ സംസാരിക്കുന്നതായും കാണാം ഈ ആംഗ്യം മറ്റ് ആളുകളുമായി കാര്യങ്ങൾ പങ്കിടാനുള്ള ആഗ്രഹത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു കൈകൾ മുറുകെപ്പിടിക്കുന്നതിന്റെ മൂന്നാമത്തെ രീതി നമ്മുടെ ശരീരത്തിന് മുന്നിൽ ഈ രീതിയിൽ കൈകൾ പിടിക്കുമ്പോൾ ആണ് ധാരാളം ആളുകൾ സാധാരണയായി നിൽക്കുമ്പോൾ ഈ രീതി സ്വീകരിക്കുന്നതായി കാണുന്നു പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ സ്ഥാനത്ത് അല്ലാത്ത ആളുകൾ ചില ആളുകൾ ഇത് ഒരു സുഖപ്രദമായ ഭാവമായി കാണുന്നുവെന്ന് ചിലപ്പോൾ പറയാം എന്നാൽ പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ ഈ രീതി ഒരു വിധേയത്വത്തെ സൂചിപ്പിക്കുന്നു ഇത് സ്വാഭാവികമായും ആത്മവിശ്വാസമുള്ള ഒരു സ്ഥാനമല്ല ആളുകൾക്ക് ഉപബോധമനസ്സിൽ ഭീഷണി നേരിടാം അല്ലെങ്കിൽ ഒരു നിശ്ചിത നിമിഷത്തിൽ തങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് അവർ അറിഞ്ഞിരിക്കാം പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ ശരീരത്തിന് മുന്നിൽ കൈകൾ ചേർത്തുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേ നിലയിലാണെന്ന് നമുക്ക് പറയാം അതേസമയം ഗ്രൂപ്പിൽ ഒരു നേതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൈയുടെ സ്ഥാനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശരീരത്തിന് മുന്നിൽ പിടിച്ചിരിക്കുന്ന കൈകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേതൃത്വ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി സ്വമേധയാ മറ്റൊരു കൈ സ്ഥാനം പിന്തുടരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും പുറകിൽ കൈകൾ പിടിച്ചിരിക്കുന്ന ഈ പ്രത്യേക സ്ഥാനം നമുക്ക് നോക്കാം കൈകളുടെ ഈ സ്ഥാനം ശ്രേഷ്ഠത ആത്മവിശ്വാസം ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു നേതാക്കൾ സാമൂഹിക വ്യക്തികൾ എന്നിവർക്കിടയിൽ ഈ സവിശേഷത വളരെ സാധാരണമാണ് ഒരു സ്ഥാനത്ത് ചില അധികാരം പ്രയോഗിക്കുന്ന ആളുകളും ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇടനാഴികളിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ പരേഡ് നോക്കുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പൊലീസുകാർ പട്രോളിംഗ് നടത്തുന്നവർ തുടങ്ങിയവർ എഡിൻബർഗ് ഡ്യൂക്കിനും ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ മറ്റ് ചില പുരുഷന്മാർക്ക് ഇടയിലും ഈ പ്രത്യേക സ്ഥാനം വളരെ പ്രചാരമുള്ളതാണെന്ന് അലൻ പീസ് അഭിപ്രായപ്പെട്ടു അവർ തല ഉയർത്തി ഒരു കൈ പിന്നിലേക്ക് വെച്ചുനടക്കുന്ന ശീലത്തിന് അറിയാപ്പെടുന്നവരാണ് ഈ പ്രത്യേക ഫോട്ടോഗ്രാഫിൽ കൈകൾ പുറകിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും അത് കൈപ്പത്തിയിലല്ല മറിച്ച് കൈ മറ്റേ കൈയുടെ മേൽഭാഗത്ത് ആണ് പിടിച്ചിരിക്കുന്നത് ഈ വശം സാഹചര്യത്തെക്കുറിച്ച് തുറന്ന നിലയുടെ അഭാവത്തെയും ഒരു പ്രത്യേക റിസർവേഷനെയും സൂചിപ്പിക്കുന്നു ഈ വ്യക്തിയുടെ മനോഭാവത്തിൽ ഒരു തടസ്സം ഉണ്ടാകാമെന്ന സൂചന ഉണ്ടായിരുന്നിട്ടും ഇത് അധികാരം ശ്രേഷ്ഠത ആത്മവിശ്വാസം ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കാരണം ആ വ്യക്തി ദുർബലമായ ശരീരഭാഗങ്ങൾ തുറന്നുകാട്ടുകയും പരിണാമപരമായി ആ സാഹചര്യത്തിൽ ആക്രമണത്തെക്കുറിച്ച് ഭയമില്ലെന്ന് മനസ്സിലാക്കാനും കഴിയും അതിനാൽ ഇത് മറ്റ് ആളുകളുടെ മുന്നിൽ നിർഭയവും മികച്ചതുമായ ഒരു മനോഭാവം ആയി കാണിക്കുന്നു മുമ്പത്തെ സ്ലൈഡിൽ ഒരു കൈയെ മറ്റേ കൈ ഉപയോഗിച്ച് പിടിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചു നമ്മുടെ കൈകൾ പുറകിൽ പിടിക്കുമ്പോൾ കൈ കൈത്തണ്ടയിൽ പിടിക്കാം അല്ലെങ്കിൽ അതിന് നമ്മുടെ മറ്റേ കയ്യിൽ പിടിക്കാം വ്യത്യസ്ത അസോസിയേഷനുകൾ ഉണ്ടായിരുന്നിട്ടും ഈ ആംഗ്യങ്ങളിലെല്ലാം പൊതുവായുള്ള ഒരു കാര്യം അവ നിയന്ത്രണം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സൂചനയാണ് സാധാരണയുള്ള കൈപ്പത്തി മറ്റേ കൈപ്പത്തിയിൽ ഇതിൽ ചേർത്തു പിടിക്കുന്ന ആംഗ്യം ഇവിടെ കൈകൾ നമ്മുടെ പുറകിൽ വളരെ അയഞ്ഞുകിടക്കുന്നു ഇത് എല്ലായ്പ്പോഴും നിയന്ത്രണം മാത്രമല്ല ശാന്തമായ മനോഭാവവും സൂചിപ്പിക്കുന്നു കൈ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൈയെ മറ്റേ കൈ ഉപയോഗിച്ച് പിടിക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള മനപൂർവമുള്ള ചില ശ്രമങ്ങളുടെ സൂചനയാണ് ഇതിനു നിരാശയെ സൂചിപ്പിക്കാനും കഴിയും ആദ്യ ഫോട്ടോയിൽ ഒരു കൈ മറ്റേ കൈത്തണ്ടയെ പുറകിൽ മുറുകെ പിടിച്ചിരിക്കുന്നതായി കാണാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്രത്തോളം ഉയരത്തിൽ ആണോ വ്യക്തിയുടെ ഒരു കൈ എതിർ ഭുജം പിടിക്കാൻ നീങ്ങുന്നത് അത്രത്തോളം അധികമാണ് ആ വ്യക്തിയുടെ കോപവും നിരാശയും ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്ന ആളുകളിൽ ഇത് പലപ്പോഴും കാണാൻ കഴിയും ഏതെങ്കിലും ഇവന്റിലെ ഒരു പ്രഭാഷകനെന്ന നിലയിലോ ഒരു പങ്കാളിയെന്ന നിലയിലോ നിങ്ങൾ ഈ പ്രത്യേക ശരീര ഭാവം പ്രദർശിപ്പിക്കുകയാണെന്ന് പെട്ടെന്ന് മനസ്സിലായാൽ പുറകിലെ നിങ്ങളുടെ കൈയുടെ ആംഗ്യം മാറ്റുന്നത് ഉചിതമായിരിക്കും ഉടനെ അങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ മികച്ച നിയന്ത്രണം ഉള്ളതായി തോന്നുന്നു കൈകളുടെ പൊതുവായ മറ്റൊരു സ്ഥാനം മടക്കിവെച്ച കൈകളാണ് ഇത് നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ അതേ സമയം പഠനങ്ങൾ പറയുന്നത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനുപകരം ഈ ആംഗ്യം യഥാർത്ഥത്തിൽ നമ്മുടെ നിരാശയെയോ ശത്രുതയെയോ സൂചിപ്പിക്കുന്നു ഒപ്പം വ്യക്തി നിഷേധാത്മക മനോഭാവം പുലർത്തുന്നുവെന്നതിന്റെ സൂചനകളും കാണിക്കുന്നു വാസ്തവത്തിൽ വ്യക്തി ആലങ്കാരികമായി തന്റെ കൈകളിലൂടെ നിഷേധാത്മക മനോഭാവം കാണിക്കുകയും അത് മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ല എന്നും ആണ് സൂചിപ്പിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ആണ് സ്പീക്കർ ഈ കൈ ആംഗ്യം തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കൈയുടെ ഈ മുറുകെ പിടുത്തം അഴിക്കാൻ കഴിയുന്ന തരത്തിൽ ചില തന്ത്രങ്ങളും ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും അതിനുശേഷം മാത്രമേ ഒരു നല്ല സംഭാഷണം സാധ്യമാകൂ സാധാരണയായുള്ള മറ്റൊരു കൈ സ്ഥാനം സ്റ്റീപ്ലിംഗ് ആണ് സ്റ്റീപ്ലിംഗ് കൈകൾ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് മിക്കപ്പോഴും ഇത് ഒരു ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഇടപെടലിൽ ഉപയോഗിക്കുന്നു ഇത് ഒരു വ്യക്തിയിലുള്ള ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു അതേ സമയം സ്റ്റീപ്ലിംഗ് കൈ ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലസ്റ്ററിംഗിൽ നിന്ന് സ്വതന്ത്രമാണ് പല സാഹചര്യങ്ങളിലും ഉയർന്ന സ്ഥാനത്തുള്ള ആളുകളും ആത്മവിശ്വാസമുള്ള ആളുകളും അവരുടെ ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നതിനായി ഇത്തരത്തിലുള്ള ഒരു കൈ സ്ഥാനം ചിലപ്പോൾ ചിലതരം വ്യതിയാനങ്ങളോടെ ഉപയോഗിക്കുന്നു നമുക്ക് ചില വ്യതിയാനങ്ങൾ നോക്കാം സ്റ്റീപ്പിൾ അഹങ്കാരത്തിന്റെ അടയാളമായി മനസ്സിലാക്കാം പ്രത്യേകിച്ചും ഇത് പോസിറ്റീവ് മുഖഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഡയഗ്രാമിൽ നമുക്ക് കാണാനാകുന്നതുപോലെ സ്റ്റീപ്ലിംഗ് ഉയർത്താനോ താഴ്ത്താനോ കഴിയും പ്രൊഫസർ റേ ബിർസ്ഡ്വിസ്റ്റെലാണ് ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആദ്യമായി കൊണ്ടുവന്നത് സാധാരണഗതിയിൽ ആനിമേറ്റുചെയ്ത ശരീരഭാഷയിൽ ഏർപ്പെടാത്ത ആളുകൾ അവരുടെ സംഭാഷണങ്ങളിൽ ധാരാളം ആംഗ്യങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ സാധാരണയായി ഈ സ്റ്റീപ്പിൾ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു തുടർന്ന് ഈ ഉയർത്തിയതും താഴ്ന്നതുമായ സ്റ്റീപ്ലിംഗിന്റെ രണ്ട് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പതിപ്പുകളിലേക്ക് അദ്ദേഹം ശ്രദ്ധ കൊണ്ടുവന്നു ഉയർത്തിയ സ്റ്റീപ്ലിംഗ് നാം ഇതിനകം കണ്ടതുപോലെ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് ഇത് ക്ലസ്റ്ററിംഗുകളുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും അത് ന്യായമായ രീതിയിൽ ഉപയോഗിക്കണം പലപ്പോഴും ഇത് അധികമായി ഉപയോഗിക്കാറുണ്ട് ഇതിനെ 'എല്ലാം അറിയുന്ന മനോഭാവം' ആയി കരുതാറുണ്ട് കൂടാതെ ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയെ ഒരു മിടുക്കനായ വ്യക്തി എന്നും കരുതുന്നു സാധാരണ സംസാരിക്കുന്നതിനുപകരം എന്തെങ്കിലും കേൾക്കുമ്പോൾ ആളുകൾ താഴ്ത്തിയ സ്റ്റീപ്പിൾ ഉപയോഗിക്കുന്നു സംഭാഷണ സമയത്ത് സ്റ്റീപ്പിൾ ഉപയോഗിക്കുന്നത് താൽപ്പര്യത്തെയും ഒരു സന്നദ്ധതയെയും സംവദിക്കാനുള്ള സന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു ഈ ആംഗ്യത്തിൽ വിരലുകൾ ഒരു പിരിമുറുക്കം കാണിക്കുന്നില്ല എന്നതും പ്രധാനമാണ് വിരലുകൾ പിരിമുറുക്കം കാണിക്കുന്നുവെങ്കിൽ അത് നെഗറ്റീവ് ആംഗ്യമായി ആണ് മനസ്സിലാക്കുന്നത് സ്റ്റീപ്ലിംഗ് പെരുമാറ്റത്തിന്റെ വിശകലനം ആണ് ഇവിടെ നോക്കുന്നത് പ്രൊഫഷണൽ ജീവിതത്തിൽ ഈ സ്വഭാവം മനസ്സിലാക്കുന്നത് എങ്ങനെ പ്രധാനവും പ്രസക്തവുമാണ് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ശക്തിയുള്ള പ്രകടനങ്ങളിലൊന്നാണ് ഇത് സ്റ്റീപ്ലിംഗ് പെരുമാറ്റം എന്തിനെക്കുറിച്ചും ആത്മവിശ്വാസവും പോസിറ്റീവും ആയ ആളുകൾ സ്റ്റീപ്പിൾ ചെയ്യുന്നു വഞ്ചനയുള്ള ആളുകളിൽ ഇത് പലപ്പോഴും കാണാറില്ല അതുപോലെ ചില സാധാരണ കൈ ചലനങ്ങളെയും അവയുടെ അർത്ഥങ്ങളെയും വ്യാഖ്യാനങ്ങളെയും കുറിച്ചുള്ള രസകരമായ ഒരു വിശകലനം ഈ വീഡിയോയിൽ സംക്ഷിപ്തമായി നൽകിയിട്ടുണ്ട് സാഹചര്യമോ മറ്റ് ആംഗ്യങ്ങളോ നോക്കാതെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരേയൊരു ആംഗ്യമാണിത് അതിനർത്ഥം വ്യക്തിക്ക് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാമെന്നും അത് ഉയർന്ന ബുദ്ധി കാണിക്കുന്നുവെന്നും ആണ് കൈകൾ ഉയർന്ന സ്റ്റീപ്ലിംഗ് കാണിക്കുമ്പോൾ വ്യക്തി തന്റെ അഭിപ്രായങ്ങൾ നൽകുന്നുവെന്നും കൈകൾ താഴ്ന്ന സ്റ്റീപ്ലിംഗ് കാണിക്കുമ്പോൾ ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണു കാണിക്കുന്നത് ഇത് വളരെ നെഗറ്റീവ് ആംഗ്യമാണ് സാധ്യമെങ്കിൽ ഒഴിവാക്കണം താൻ സംസാരിക്കുന്ന ആളേക്കാൾ കൂടുതൽ തനിക്ക് അറിയാമെന്ന് ആ വ്യക്തി കരുതുന്നു ഇത് അഹങ്കാര മനോഭാവത്തെ സൂചിപ്പിക്കുന്നു ഇതൊരു നല്ല ആംഗ്യമാണ് അതിനർത്ഥം ആ വ്യക്തിക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്നും ആളുകളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് അവൾക്ക് തോന്നുന്നുവെന്നും അവൾ നിങ്ങളോട് സംസാരിക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിനോട് സാമ്യമുള്ള മറ്റൊരു ആംഗ്യം ഇതാ തികച്ചും വ്യത്യസ്തമായ അർത്ഥമുള്ളതാണ് ഇത് ഇതിനേക്കാൾ അനുയോജ്യമായ ഒരു ചിത്രം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന ആൺകുട്ടിയെ കാണാം അതിനർത്ഥം അവൻ നിരാശനാണ് എന്നാണ് ഒരു വ്യക്തി അയാളുടെ കൈയിൽ എത്ര കൂടുതൽ പിടിക്കുന്നുവോ അത്രയും അധികം ആണ് അയാളുടെ നിരാശയും ഭീതിയും കൈ അടച്ച് പിടിച്ചിരിക്കുകയും കൈ കവിളിൽ വിശ്രമിക്കുകയാണെങ്കിൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് ചൂണ്ടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ വ്യക്തി ഒരു തീരുമാനമെടുക്കുന്നു എന്നാണ് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചതിന് സമാനമായ ഒരു ആംഗ്യമാണ് എന്നാൽ ഇവിടെ കൈ വായയോട് അടുത്താണ് തള്ളവിരൽ താടിയിൽ വെച്ചിരിക്കുകയാണ് ഇതിനർത്ഥം നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച് വ്യക്തിക്ക് നെഗറ്റീവ് ചിന്തകളുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു അടുത്ത മൊഡ്യൂളിൽ വിരലുകളുടെ ചലനത്തെയും തള്ളവിരലിനെയും കുറിച്ച് ചർച്ച ചെയ്യും